നമസ്കാരം സോഫ്റ്റ് സ്കിൽസും വ്യക്തിത്വവും വികസിപ്പിക്കുന്നതിനെക്കുറിച്ചുള്ള എൻ മൂക്ക് കോഴ്സിലേക്ക് സ്വാഗതം ടി കാൺപൂരിൽ നിന്നുള്ള രവിചന്ദ്രനാണ് അതിനാൽ ഞാൻ നിങ്ങൾക്ക് കോഴ്സ് പരിചയപ്പെടുത്തുകയാണ് നമ്മൾ ഇവിടെ ആദ്യത്തെ ആമുഖ മൊഡ്യൂളിലാണ് പക്ഷേ പതുക്കെ ഞാൻ കോഴ്സിന്റെ പ്രധാന ആശയങ്ങളും നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ തുടങ്ങി ഇത് ആഴ്ച 1 ആണ് ഇത് മൊഡ്യൂൾ 5 ആണ് ഇപ്പോൾ ഈ പ്രഭാഷണത്തിൽ ഞാൻ നിർമ്മാണത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പോകുന്നു നിങ്ങൾ മികവിലേക്ക് നീങ്ങുന്നു തുടർന്ന് ആ ഘട്ടത്തിലേക്ക് നിങ്ങൾ അത് തിരിച്ചറിയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു നിങ്ങളുടെ കഴിവുകൾ നിങ്ങളുടെ യഥാർത്ഥ സാധ്യതകൾ എന്തൊക്കെയാണ് ഞാൻ നിങ്ങൾക്ക് നുറുങ്ങുകളും നിർദ്ദേശങ്ങളും നൽകും നിങ്ങളുടെ കഴിവുകൾ വികസിപ്പിക്കുന്നതിന് ഇപ്പോൾ ഞാൻ വളരെ പ്രഭാഷണത്തിൽ ചെയ്യുന്നതുപോലെ ആരംഭിക്കുന്നതിന് മുമ്പ് എന്താണ് ചെയ്യുന്നതെന്ന് വേഗത്തിൽ റീക്യാപ്പ് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു കഴിഞ്ഞ പ്രഭാഷണത്തിൽ നമ്മൾ അത് ചെയ്തു കഴിഞ്ഞ പ്രഭാഷണത്തിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞു ഞാൻ നിങ്ങളെ മൃദുവായി പഠിപ്പിക്കേണ്ടതില്ലെന്ന് കഴിവുകൾ വളരെ വ്യക്തമായി എന്നാൽ പരോക്ഷമായും ഞാൻ മുൻകാലങ്ങളിൽ ചില കഴിവുകൾ പഠിപ്പിച്ചിട്ടുണ്ട് 2 3 പ്രഭാഷണങ്ങൾ പ്രത്യേകിച്ച് ഞാൻ പഠിപ്പിക്കുകയായിരുന്നു സ്വയം മാനേജ്മെന്റിനെക്കുറിച്ചും തുടർന്ന് വൈകാരിക നിയന്ത്രണത്തെക്കുറിച്ചും സമയ മാനേജ്മെന്റ് കഴിവുകളെക്കുറിച്ചും എന്തെങ്കിലും ഇപ്പോൾ മുമ്പത്തേതിൽ പ്രത്യേകിച്ച് ഞാൻ സ്വയം മാനേജ്മെന്റ് നൈപുണ്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയായിരുന്നു എന്നിട്ട് നിങ്ങൾ ഈ നൈപുണ്യ സെറ്റ് നോക്കുകയാണെങ്കിൽ അവയിൽ ഏകദേശം നൂറുകണക്കുകളും അതിലേറെയും ഉണ്ട് പക്ഷേ തുടർന്ന് ഞാൻ 9 പ്രധാന സ്വയം മാനേജ്മെന്റ് നൈപുണ്യ സെറ്റുകളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു ആദ്യത്തേത് സ്വയം അവബോധം ആത്മവിശ്വാസം മാനസികാവസ്ഥ പ്രത്യേകിച്ച് വളർച്ചാ മാനസികാവസ്ഥ സ്ഥിരമായ മാനസികാവസ്ഥ ശുഭാപ്തിവിശ്വാസമുള്ള മാനസികാവസ്ഥ പിന്നെ അശുഭാപ്തിവിശ്വാസമുള്ള മാനസികാവസ്ഥ വൈകാരിക സന്തുലിതാവസ്ഥ സമ്മർദ്ദം സുഖപ്പെടുത്തൽ പരാജയം ക്ഷമ സഹിഷ്ണുത വിശ്വാസ്യത ഗ്രഹണശേഷി അവസാനത്തേത് എന്നാൽ ഏറ്റവും കുറഞ്ഞത് ആത്മീയ ബുദ്ധി എന്നിവയെ നേരിടുക പറഞ്ഞതുപോലെ ഇവയെക്കുറിച്ച് വിശദമായി ഞാൻ കൂടുതൽ സമയം ചെലവഴിക്കും നിലവിൽ ഈ പ്രത്യേക മൊഡ്യൂളിനും ഈ പ്രത്യേക പ്രഭാഷണത്തിനും നിങ്ങളുടെ മികവ് വികസിപ്പിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഇപ്പോൾ നിങ്ങൾക്ക് മികവിലേക്ക് നീങ്ങേണ്ടിവരുമ്പോൾ നിങ്ങൾ മനസ്സിൽ സൂക്ഷിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് ഒന്നാമതായി മികവ് എന്താണ് മികവ് ഒരു സവിശേഷതയാണ് നിങ്ങൾക്ക് ഉയർന്ന തലത്തിൽ നല്ല ഗുണങ്ങളുണ്ടെന്ന് ഇത് സൂചിപ്പിക്കുന്നു ഇപ്പോൾ ചില വ്യക്തികൾ വളരെ കഴിവുള്ളവരാണ് അവർ ബഹുമുഖ പ്രതിഭയുള്ളവരും മികച്ചവരുമാണ് ജീവിതത്തിന്റെ പല മേഖലകളിലും അത് സ്പോർട്സ് ആകട്ടെ അല്ലെങ്കിൽ അക്കാദമിക് അല്ലെങ്കിൽ ബിസിനസ്സിലോ വ്യക്തിപരമായ ജീവിതത്തിലോ എല്ലായിടത്തും ചില ആളുകൾ വളരെ മികച്ചവരാണ് പക്ഷേ എല്ലാ വ്യക്തികളും കുറഞ്ഞത് ഒരു മേഖലയിലോ മറ്റേതെങ്കിലും മേഖലയിലോ മികച്ചവരാണ് ഇപ്പോൾ നിങ്ങൾ ചോദ്യം ചോദിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു നിങ്ങൾ എന്താണ് ആളുകൾ നിങ്ങളെക്കുറിച്ച് സംസാരിക്കുകയും അവർ വളരെ നല്ല കാര്യങ്ങൾ പറയുകയും ചെയ്താൽ അത് മികച്ച രീതിയിൽ ചെയ്യുന്നു നിങ്ങളെക്കുറിച്ച് നിങ്ങളുടെ ജീവിതത്തിന്റെ ഏത് മേഖലയിലും വളരെ മികച്ച വ്യക്തിയായി അവർ നിങ്ങളെ തിരിച്ചറിയുന്നു നിങ്ങൾ ശരിക്കും മികച്ചവനാണെന്ന് അവർ എവിടെ പറയും നിങ്ങൾ ഒരു മികച്ച വ്യക്തിയാണ് അല്ലെങ്കിൽ നിങ്ങൾ ഒരു മികച്ച വിദ്യാർത്ഥിയാണോ അതോ നിങ്ങൾ ഒരു മികച്ച അധ്യാപകനാണോ ഒരു മികച്ച ഡോക്ടറാണോ ഒരു മികച്ച വിദ്യാർത്ഥിയാണോ മികച്ച എഞ്ചിനീയർ മികച്ച സാമൂഹിക പ്രവർത്തകൻ നിങ്ങളെപ്പോലുള്ള മികച്ച കളിക്കാരൻ മികച്ച ക്രിക്കറ്റ് താരം മികച്ച നീന്തൽക്കാരൻ അപ്പോൾ നിങ്ങൾ എവിടെയാണ് മികവ് പുലർത്തുന്നത് നിങ്ങൾ മികച്ചവരാണെന്ന് ആളുകൾ പറയുന്ന ഒരു പ്രധാന മേഖലയെങ്കിലും ഇപ്പോൾ തിരിച്ചറിയുക എന്നിട്ട് നിങ്ങൾ തിരിച്ചറിയാൻ ശ്രമിക്കുകയാണെങ്കിൽ നിങ്ങളും നിങ്ങളെക്കുറിച്ച് ചോദിക്കുകയും തുടർന്ന് ശ്രമിക്കുകയും ചെയ്യുക മൊത്തത്തിലുള്ള അർത്ഥത്തിൽ ഒരു വ്യക്തിയെന്ന നിലയിൽ നിങ്ങൾ സ്വയം എങ്ങനെ വിലയിരുത്തുമെന്ന് വിലയിരുത്തുക പിന്നെ ആരെങ്കിലും നിങ്ങളെ നോക്കുന്ന രീതിയിലും നിങ്ങളുടെ ജോലിയെ നോക്കുന്ന രീതിയിലും നിങ്ങളെ എങ്ങനെ വിലയിരുത്തും അവർ നിങ്ങളെ പാവം ശരാശരി ശരാശരിക്ക് മുകളിൽ എന്ന് വിളിക്കുമോ അല്ലെങ്കിൽ നല്ലത് വളരെ നല്ലത് മികച്ചത് മികച്ചത് വിശിഷ്ടം അപ്പോൾ അവർ നിങ്ങളെ എങ്ങനെ തരംതിരിക്കും ചില സന്ദർഭങ്ങളിൽ നിങ്ങൾ ശരിക്കും വ്യത്യസ്തനാണെന്ന് അവർ കരുതുന്നു പക്ഷേ അപ്പോൾ നിങ്ങളുടെ അഭിപ്രായത്തിൽ നിങ്ങൾ ശരിക്കും അത്ര വിശിഷ്ടനല്ലെന്ന് നിങ്ങൾ കരുതുന്നു നിങ്ങൾക്ക് നിങ്ങൾ ശരാശരിയേക്കാൾ മുകളിലാണെന്ന് കരുതുക നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ യഥാർത്ഥത്തിൽ എന്താണെന്ന് നിങ്ങൾ കരുതുന്നു നിങ്ങളിൽ ആ വശം എന്താണ് നിങ്ങൾ ഇപ്പോൾ മികച്ചവരല്ലെങ്കിൽ നിങ്ങൾക്ക് കഴിയുമെന്ന് നിങ്ങൾ കരുതുന്നു ആ മികവിന്റെ തലത്തിലേക്ക് അത് എത്തുമോ നിങ്ങൾക്ക് ഒരു മികച്ച ചിത്രകാരനാകാൻ കഴിയുന്നത്ര നന്നായി വരയ്ക്കാൻ കഴിയുന്ന ഒരു സൃഷ്ടിപരമായ സ്വഭാവം നിങ്ങളിൽ ഉണ്ടോ നിങ്ങൾക്ക് ഒരു മികച്ച കവിതാ എഴുത്തുകാരനാകാൻ കഴിയും മികച്ച നോവലിസ്റ്റ് അല്ലെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ നിങ്ങളുടെ ജീവിതത്തിന്റെ ഏതെങ്കിലും സാങ്കേതിക വശം നിങ്ങളെ എത്തിക്കാൻ കഴിയും അതിനെക്കുറിച്ച് ചിന്തിക്കുക തിടുക്കമില്ല നിങ്ങൾ പോലും ഈ വീഡിയോ താൽക്കാലികമായി നിർത്തി നിങ്ങളുടെ നോട്ട് ബുക്കിൽ എഴുതുക ആളുകൾ എന്നെക്കുറിച്ച് എന്താണ് പറയുന്നത് അവർ എന്നെ എങ്ങനെ വിലയിരുത്തുന്നു എന്നെക്കുറിച്ച് ഞാൻ എങ്ങനെ വിലയിരുത്തും ഞാൻ ശരിക്കും മികച്ചവനാണെന്ന് ഞാൻ എവിടെയാണ് കരുതുന്നത് ഇപ്പോൾ നിങ്ങൾ ശരിക്കും മികച്ചവരാണെന്നോ അല്ലെങ്കിൽ ഒരു പ്രത്യേക മേഖലയിൽ നിങ്ങൾക്ക് മികവ് നേടാനാകുമെന്നോ നിങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യം ചോദിക്കാം നിങ്ങൾക്ക് എന്തെങ്കിലും മികവ് പുലർത്തണമെങ്കിൽ നിങ്ങൾക്ക് ഏതുതരം ഗുണങ്ങളാണ് വേണ്ടത് ഞാൻ മുമ്പ് സംസാരിച്ചതോ നിങ്ങൾ കണ്ടുമുട്ടിയതോ ആയ ഗുണങ്ങൾ വ്യക്തമാണ് എന്നാൽ അടുത്ത ചോദ്യം ഇതാണ് നിങ്ങൾക്ക് ആ ഗുണങ്ങൾ ഉണ്ടോ ആ മികവ് നേടാനുള്ള പ്രചോദനം നിങ്ങളിൽ ഉണ്ടോ ഇപ്പോൾ അടുത്തത് ഒരുതരം സ്വയം വിലയിരുത്തൽ സംവിധാനമാണ് നിങ്ങളുടെ നോട്ട് ബുക്ക് അതിൽ അഞ്ചെണ്ണം തിരിച്ചറിയാൻ ശ്രമിക്കുക നിങ്ങളിലുള്ള നിങ്ങളുടെ സ്വഭാവവിശേഷങ്ങൾ തീർച്ചയായും നിങ്ങളെ ശ്രേഷ്ഠതയിലേക്ക് കൊണ്ടുപോകും 5 ഗുണങ്ങൾ 5 സ്വഭാവവിശേഷങ്ങൾ അതിനാൽ അത് ഞാൻ ശ്രദ്ധിച്ചതുപോലെയുള്ള ഒന്നായിരിക്കാം ശ്രദ്ധ അച്ചടക്കം നിശ്ചയദാർഢ്യം ദൃഢനിശ്ചയം ഇച്ഛാശക്തി അല്ലെങ്കിൽ വളരെ ശുഭാപ്തിവിശ്വാസം സമർപ്പണം സമയനിഷ്ഠ മുതലായവ പക്ഷേ നിങ്ങൾ ചെയ്യുന്നില്ല ഞാൻ ഇവിടെ പരാമർശിച്ചതെന്തും ഉടൻ എഴുതുക എന്നാൽ നിങ്ങളെ മികച്ചതാക്കുന്നത് എന്താണെന്ന് ചിന്തിക്കുക നിങ്ങൾക്ക് അത് നേടണമെങ്കിൽ നിങ്ങൾക്കുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ് നിങ്ങളിൽ ഉള്ളതിനാൽ അത് എഴുതുക ഇപ്പോൾ നിങ്ങൾക്ക് ഈ നല്ല ഗുണങ്ങളിൽ ചിലത് കുറവാണെന്ന് നിങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ ചില നെഗറ്റീവ് ഗുണങ്ങൾ നിങ്ങൾക്ക് വ്യക്തമായി തിരിച്ചറിയാൻ കഴിയും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഉണ്ടായിരിക്കേണ്ട ചില നല്ല ഗുണങ്ങൾ അമിതമായി വിലയിരുത്തുക ആ നെഗറ്റീവ് ഗുണങ്ങൾ എന്തൊക്കെയാണ് ആ പരിമിതികൾ എന്തൊക്കെയാണ് അവയിൽ അഞ്ചെണ്ണം നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയുമോ ഇത് അലസത പോലെയാണോ അവൻ മികച്ചവനാണെങ്കിലും മടിയനാണെന്നോ അല്ലെങ്കിൽ മികച്ചവനാണെന്നോ ആളുകൾ നിങ്ങളോട് പറയുമോ പോസ്റ്റ്പോണർ അദ്ദേഹം കാലതാമസത്തിൽ വളരെ നല്ലവനാണ് അതിനാൽ എല്ലാം നെഗറ്റീവ് പോലെയാണ് പക്ഷേ അവ സൌമ്യതയോടെ നിങ്ങളെ സ്തുതിക്കുന്നു ആസക്തി അത് ഏതെങ്കിലും തരത്തിലുള്ള സിഗരറ്റോ മയക്കുമരുന്നോ ആകാം അല്ലെങ്കിൽ അനന്തമായി സിനിമകൾ കാണുക പോലും ആകാം ടിവിയിലോ സോഷ്യൽ മീഡിയയിലോ ഫെയ്സ് ബുക്കിംഗിലും മറ്റും വെറും വിനോദത്തിനായി നിങ്ങൾ അത് അരമണിക്കൂറോ മറ്റോ ചെയ്യുന്നു തുടർന്ന് നിങ്ങൾ മാത്രം നിങ്ങളുടെ ജീവിതകാലം മുഴുവൻ ഈ മാധ്യമങ്ങൾക്കും ഉപകരണങ്ങൾക്കും മുന്നിൽ ഇരുന്ന് 24 മണിക്കൂറും ചെലവഴിക്കുക അതിനു മുമ്പ് നിങ്ങൾക്ക് സ്വയം പൂർണ്ണമായും നഷ്ടപ്പെടുകയും നിങ്ങൾക്ക് നിയന്ത്രണം നഷ്ടപ്പെടുകയും ചെയ്യുന്നു ഇപ്പോൾ അത് നിങ്ങളെ തടയുന്ന ഒരു പരിമിതിയാണ് മികവിന്റെ തലത്തിലെത്തുന്നു സ്വയം ചോദിക്കുക നിങ്ങൾ എവിടെയാണ് കുടുങ്ങിക്കിടക്കുന്നത് എന്താണ് നിങ്ങളെ തടയുന്നത് അത് ആത്മാഭിമാനം കുറവായിരിക്കുമോ ഒരുപക്ഷേ അത് സ്വയം സംശയങ്ങൾ ആണ് ഇങ്ങനെ ചിന്തിക്കുന്നത് പോലെഃ ഓ ആ വ്യക്തി മികച്ചവനായിരിക്കാം പക്ഷേ എനിക്ക് എങ്ങനെ അവനെ അല്ലെങ്കിൽ അവളെപ്പോലെ മികച്ചവനാകാൻ കഴിയും അതോ നിങ്ങളുടെ സ്വന്തം നിഷേധാത്മക ചിന്തയാണോ അത് നിങ്ങളുടെ മനസ്സിൽ വരുന്നു ഇല്ല ഇല്ല നിങ്ങൾ നല്ലവരല്ല അങ്ങനെയല്ല ആ വ്യക്തി അതിനാൽ സ്വയം ചോദിക്കുക തുടർന്ന് അവ തിരിച്ചറിയുക തുടർന്ന് എഴുതുക തുടർന്ന് ഒരെണ്ണം ചെയ്യുക കൂടുതൽ ചെറിയ ജോലി വളരെ അടുത്ത സുഹൃത്തിനെയോ അഭ്യുദയകാംക്ഷിയെയോ അയൽക്കാരനെയോ മുതിർന്നയാളെയോ ചോദിക്കുക വ്യക്തി നിങ്ങളിൽ നല്ലത് ഉണ്ടെന്ന് ആ വ്യക്തി എന്താണ് ചിന്തിക്കുന്നതെന്ന് ആ വ്യക്തിയോട് ചോദിക്കുക ഗുണങ്ങൾ നിങ്ങളെ ഒരു മികച്ച വ്യക്തിയാക്കുന്ന സ്വഭാവവിശേഷങ്ങൾ പിന്നെ നിങ്ങളെ യഥാർത്ഥത്തിൽ താഴ്ത്തുന്ന പരിമിതികൾ അവരുടെ കാഴ്ചപ്പാടിൽ എന്താണ് ഉള്ളത് ചിലപ്പോൾ നിങ്ങൾക്ക് നിങ്ങളെക്കുറിച്ച് ഒരു യഥാർത്ഥ ധാരണ ഉണ്ടാകണമെന്നില്ല നിങ്ങളെക്കുറിച്ച് മറ്റുള്ളവർ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് കൂടുതൽ പ്രസക്തമായിരിക്കും നിങ്ങൾക്ക് എത്തിച്ചേരണമെങ്കിൽ ഇത് ആദ്യപടിയാണെന്ന് കണ്ടെത്തുക മികവ് നിങ്ങൾ നിങ്ങളെക്കുറിച്ച് ബോധവാന്മാരായിരിക്കണം നിങ്ങളുടെ യോഗ്യത എന്താണ് നിങ്ങളുടെ യോഗ്യത എന്താണ് പരിമിതികളും യോഗ്യതകൾ മാത്രമല്ല അത് ഉറപ്പാക്കുന്ന മികച്ച ഗുണങ്ങളും നിങ്ങൾ തീർച്ചയായും ഒരു മികച്ച വ്യക്തിയായി മാറുമെന്ന് വ്യക്തി ഇപ്പോൾ അത് തിരിച്ചറിഞ്ഞാൽ നിങ്ങൾ വളരെ ആകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്ന അടുത്ത ആശയത്തിലേക്ക് നമുക്ക് കടക്കാം ഈ സോഫ്റ്റ് സ്കിൽസിനെ ഞാൻ സമീപിക്കുന്ന രീതി ഞാൻ പറഞ്ഞതുപോലെ അല്ല രൂപത്തിന് പുറത്ത് നിങ്ങൾ ശ്രമിക്കുന്ന ഒരുതരം സൌന്ദര്യവർദ്ധക സ്പർശമാണ് അത് ആരംഭിക്കുന്നത് മാറ്റം വരുത്തുകയും തുടർന്ന് നിങ്ങൾക്ക് വളരെ ശക്തിയുണ്ടെന്ന് ആളുകളെ വിശ്വസിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു വ്യക്തിത്വം ഇപ്പോൾ ഞാൻ ഒരു ആന്തരിക കോർ സമീപനം ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നു നിങ്ങളുടെ ആന്തരിക കോർ ആയിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എന്താണെന്ന് ആളുകൾക്ക് വ്യക്തമായി കാണാൻ കഴിയുന്ന തരത്തിൽ അത് പുറത്തേക്ക് പുറന്തള്ളാൻ കൂടുതൽ ശക്തിപ്പെടുത്തി നിങ്ങൾ അത് പുറത്ത് പ്രകടിപ്പിക്കുന്ന രീതിയിൽ ആന്തരികമായി സംഭവിക്കുന്നു ഇപ്പോൾ ഇത് കൊണ്ട് ഞാൻ എന്താണ് അർത്ഥമാക്കുന്നത് ഞാൻ നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത് 2 വഴികളുണ്ട് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയും നിങ്ങളുടെ ആന്തരിക കാമ്പ് വളരെ ശക്തമാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ആന്തരിക കാമ്പ് വളരെ ദുർബലമാക്കാം 2 സമീപനങ്ങളുണ്ട് അതിനാൽ നിങ്ങൾ അത് പിന്തുടരുകയാണെങ്കിൽ ഞാൻ ഇത് ഇടതുവശത്ത് പട്ടികപ്പെടുത്താൻ പോകുന്നു നിങ്ങൾ കൂടുതൽ ശക്തരും ശക്തരുമായിത്തീരുകയും നിങ്ങളുടെ ആന്തരിക കാമ്പ് കൂടുതൽ ശക്തവും ശക്തവുമായി മാറുകയും ചെയ്യുന്നു ഇപ്പോൾ നിങ്ങൾ ഇത്തരക്കാരനാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിന്റെ ചില ലക്ഷണങ്ങളുണ്ടെങ്കിൽപ്പോലും നിങ്ങൾ നിങ്ങളുടെ ഉള്ളിലെന്നപോലെ നിങ്ങൾ ദുർബലരും ദുർബലരുമാണെന്ന് അറിയേണ്ടതുണ്ട് ആശങ്കയുണ്ട് ഇത് നോക്കൂ എന്താണ് നിങ്ങളെ കൂടുതൽ ശക്തരാക്കുന്നത് സമൃദ്ധിയുടെ നിയമം ഇതിനർത്ഥം വിശ്വസിക്കുക എന്നാണ് പ്രപഞ്ചം സമ്പന്നമായതിനാൽ ലോകം സമ്പത്തും സമ്പത്തും നിറഞ്ഞതാണ് തുടർന്ന് അത് നിങ്ങൾ മാത്രമല്ല അത് എല്ലാവർക്കും നൽകും അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ളതെന്തും നിങ്ങൾക്ക് ലഭിക്കും അതിനാൽ ആർക്കും അത് തടയാൻ കഴിയില്ല എലികളുടെ ഓട്ടത്തിൽ പങ്കെടുക്കേണ്ട ആവശ്യമില്ല പോരാടേണ്ട ആവശ്യമില്ല പോരാടേണ്ട ആവശ്യമില്ല നിങ്ങൾ നിങ്ങളുടെ ആന്തരിക കാമ്പ് വികസിപ്പിക്കുകയാണെങ്കിൽ മറ്റെല്ലാം നിങ്ങൾക്ക് ലഭിക്കും യാന്ത്രികമായി നിങ്ങളെ ദുർബലരാക്കിയേക്കാവുന്ന വിപരീത വീക്ഷണം വിപരീത വീക്ഷണം മനസ്സിന്റെ ദാരിദ്ര്യം എന്ന് നമ്മൾ വിളിക്കുന്നതിനെക്കുറിച്ച് ചിന്തിക്കുക വിഭവങ്ങൾ കുറവാണെന്ന് മനസ്സ് കരുതുന്നു മറ്റൊരാളിൽ നിന്ന് ശേഖരിക്കപ്പെടുകയോ പങ്കിടാതിരിക്കുകയോ തട്ടിയെടുക്കപ്പെടുകയോ ചെയ്യുക നിങ്ങൾ എലികളുടെ ഓട്ടത്തിൽ ആയിരിക്കണം നിങ്ങൾ പോരാടണം നിങ്ങൾ മത്സരിക്കണം നിങ്ങൾ കൊല്ലണം മറ്റൊന്നിൽ നിന്ന് എന്തെങ്കിലും ലഭിക്കാൻ നിങ്ങൾ പരസ്പരം അടിക്കണം വ്യക്തി മനസ്സിന്റെ ദാരിദ്ര്യംഃ എനിക്ക് മതിയാകില്ലെന്ന് ചിന്തിക്കുന്നു അതിനാൽ എനിക്ക് മതിയാകും യഥാർത്ഥത്തിൽ ബ്ലെൻഡർ മറ്റൊരാളിൽ നിന്ന് എടുക്കുന്നു മറ്റൊരു സാഹചര്യത്തിൽ സമൃദ്ധിയുടെ നിയമം വിശ്വസിക്കുന്നത് ഞാൻ നൽകുകയും പിന്നീട് നൽകുകയും ചെയ്യുന്നു എന്നാണ് കൂടുതൽ എന്തെങ്കിലും നേടുക മറ്റേ വ്യക്തിയും വിശ്വസിക്കുന്നു കാരണം ആ സാർവത്രിക നിയമം പറയുന്നു ലോകത്തിൽ എല്ലായിടത്തും ധാരാളം വിഭവങ്ങളുണ്ട് ഇപ്പോൾ ഈ വശം വീണ്ടും നിങ്ങൾക്ക് ധൈര്യമുണ്ട് അതിനാൽ നിങ്ങൾക്ക് തീരുമാനങ്ങൾ എടുക്കാം നിങ്ങളുടെ ജീവിതത്തിൽ ധൈര്യമോ അല്ലെങ്കിൽ കഴിവോ ഉപയോഗിച്ച് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം നിങ്ങൾക്ക് ആന്തരിക കാമ്പ് ദുർബലമാക്കണമെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ തീരുമാനങ്ങൾ എടുക്കാൻ നിങ്ങൾ ഭയം ഉപയോഗിക്കുന്നു ഇപ്പോൾ ഭയം മൂലം നിങ്ങൾ എടുത്ത തീരുമാനങ്ങൾ ഓർക്കുക നിങ്ങൾ തീർച്ചയായും ഖേദിക്കും നിങ്ങൾ ഖേദിക്കുമ്പോൾ എന്തുകൊണ്ടാണ് നിങ്ങൾ ധൈര്യം ഉപയോഗിച്ച് ആ കാര്യം ചെയ്യാത്തതെന്ന് നിങ്ങൾ വിഷമിക്കും നിങ്ങൾ വിഷമിക്കുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ശരീരത്തിന്റെ മനസ്സിന്റെ ഊർജ്ജത്തെ കൊല്ലുന്നു നിങ്ങൾ ഇനി ജീവിക്കുന്നില്ല അതിനാൽ ഈ വശം നിങ്ങൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾ ധൈര്യം ഉപയോഗിക്കുന്നു നിങ്ങൾ റിസ്ക് എടുക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് ആത്മവിശ്വാസമുണ്ട് തുടർന്ന് നിങ്ങൾക്ക് ആളുകളിൽ വിശ്വാസമോ വിശ്വാസമോ ഉണ്ട് കാര്യങ്ങൾ നിങ്ങൾ വിശ്വസിക്കുന്ന ഒരു ബാഹ്യ ആത്മീയ സത്തയിൽ അത് നിങ്ങളെ സഹായിക്കും നിങ്ങളെ സഹായിക്കാൻ ലോകം മുഴുവൻ ഗൂഢാലോചന നടത്തുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു പ്രപഞ്ചത്തിലുള്ള ബാഹ്യശക്തി നിങ്ങളെ സഹായിക്കുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു സ്വയം സഹായിക്കാൻ ശ്രമിക്കുക ഇപ്പോൾ ഈ വശത്ത്ഃ നിങ്ങൾ ഭയപ്പെടുന്നു അതിനാൽ നിങ്ങൾ നിയന്ത്രിതരാണ് എടുക്കാൻ നിങ്ങൾ ഭയപ്പെടുന്നു അപകടസാധ്യതകൾ നിങ്ങൾ സ്വയം നിയന്ത്രിക്കുന്നു നിങ്ങൾക്ക് ധാരാളം തടസ്സങ്ങളുണ്ട് നിങ്ങൾ താഴ്ന്ന ആത്മാഭിമാനം അനുഭവിക്കുന്നു നിങ്ങൾക്ക് സംശയവും സംശയവുമുണ്ട് നിങ്ങൾക്ക് വിശ്വാസമില്ല നിങ്ങൾ ആളുകളെ വിശ്വസിക്കുന്നില്ല നിങ്ങൾ സംശയിക്കുന്നു ആളുകൾ നിങ്ങൾ ആളുകളെ സംശയിക്കുന്നു ഇപ്പോൾ ഇത് നിങ്ങളുടെ ആന്തരിക കാമ്പ് ദുർബലപ്പെടുത്തും ഇപ്പോൾ മറ്റൊരു കൂട്ടംഃ ശുഭാപ്തിവിശ്വാസം നിങ്ങളെ കൂടുതൽ ശക്തരാക്കും നിരാശാവാദം അത് നിങ്ങളെ ദുർബലരാക്കും വളർച്ചാ മനോഭാവം നിങ്ങളെ കൂടുതൽ ശക്തരാക്കും നിങ്ങൾ മാറാൻ തയ്യാറാണ് ഞങ്ങൾ തയ്യാറാണ് പൊരുത്തപ്പെടാൻ പരാജയത്തിൽ നിന്ന് പഠിക്കാൻ ഞങ്ങൾ തയ്യാറാണ് ഇപ്പോൾ ഈ വശംഃ സ്ഥിരമായ മാനസികാവസ്ഥ അതിനാൽ ഞാൻ ചെയ്യുമെന്ന് ചിന്തിക്കുന്നു ഞാൻ ഒന്നും പഠിക്കുന്നില്ല കാരണം എനിക്ക് എല്ലാം അറിയാം മറ്റൊരാളിൽ നിന്ന് എനിക്ക് ഒന്നും പഠിക്കാൻ കഴിയില്ല ആ വ്യക്തി എന്നെക്കാൾ താഴ്ന്നവനായതിനാൽ ഞാൻ അവനെക്കാൾ ശ്രേഷ്ഠനാണ് അതിനാൽ ഇത്തരത്തിലുള്ള ചിന്തകൾ ചിന്തയുടെ കാഠിന്യം പോകുന്നില്ല നിങ്ങളെ എവിടെയും കൊണ്ടുപോകാൻ വാസ്തവത്തിൽ ഈ വശം ഒരു പരാജയമാണെങ്കിൽ വളർച്ചാ മനോഭാവമുള്ള വ്യക്തി പരാജയത്തിൽ നിന്ന് പഠിക്കും അതേസമയം ഈ സ്ഥിരമായ മാനസികാവസ്ഥ യഥാർത്ഥത്തിൽ പരാജയത്തിൽ നിന്ന് വിഷാദം അനുഭവപ്പെടും അവൻ പൂർണ്ണമായും കുടുങ്ങിപ്പോകും അതിനാൽ അവൻ ആയിരിക്കില്ല തിരിച്ചുവരാൻ കഴിയും അതിനാൽ ഈ വശംഃ വ്യക്തി മൊത്തത്തിൽ എല്ലായ്പ്പോഴും ഏറ്റവും മികച്ചത് പ്രതീക്ഷിക്കുന്നു സംഭവിക്കുന്നു വളരെ അചഞ്ചലമായ ശുഭാപ്തിവിശ്വാസിയായ ആ ദിവസം ഇന്ന് മോശമാണെങ്കിൽ ഞാൻ അത് ചെയ്യുമെന്ന് അവൻ കരുതുന്നു നാളെ നല്ലതായിത്തീരുന്നു നാളെ നല്ലതല്ലെങ്കിൽ നാളെയുടെ പിറ്റേന്ന് അവൻ ചിന്തിക്കുന്നു എനിക്ക് കൂടുതൽ മെച്ചപ്പെടും ഞാൻ കൂടുതൽ സന്തോഷവാനായിരിക്കും എല്ലാ കാലത്തും ഇപ്പോൾ ഈ വശം ഈ വ്യക്തി എല്ലായ്പ്പോഴും എനിക്ക് ഏറ്റവും മോശമായ കാര്യം സംഭവിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു അവൻ ഭാഗ്യത്തിൽ വിശ്വസിക്കുന്നു എന്നാൽ ഈ വശം ആ വ്യക്തി ജോലിയിൽ വിശ്വസിക്കുന്ന അദ്ദേഹം തനിക്ക് ജോലി ചെയ്യാൻ കഴിയുമെന്ന് കരുതുന്നു അവന്റെ ഭാഗ്യം ഇപ്പോൾ നിങ്ങൾ ആദ്യം സ്വയം ചോദിക്കണം നിങ്ങൾ എവിടെയാണ് യോജിക്കുന്നത് നിങ്ങൾ ഇതിനകം ശക്തരാണോ അതോ ഇതിനകം തന്നെ ഇത് രൂപപ്പെടുത്തുന്നത് പോലെ ദുർബലരാണോ അകത്തെ കോറിന്റെ ഒരു വശം ഇപ്പോൾ ഈ 2 ചോയ്സുകൾക്കുള്ളിൽ നിങ്ങൾ ഈ വശം ചെയ്യുന്നവ തിരഞ്ഞെടുക്കും നിങ്ങൾ കൂടുതൽ ശക്തരാണ് അതിനെക്കുറിച്ച് ചിന്തിക്കുക എന്നിട്ട് നിങ്ങൾക്ക് ദുർബലമായ സെറ്റ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ ഉണ്ടെന്ന് ചിന്തിക്കാൻ ശ്രമിക്കുക അവ നീക്കം ചെയ്യുക നിങ്ങൾക്ക് അവ ഉടൻ നീക്കം ചെയ്യാൻ കഴിയില്ല നിങ്ങൾ അത് നൽകണം സ്വന്തം ആവൃത്തി നിങ്ങൾ ഭയപ്പെടുന്നതിന്റെ എണ്ണം കുറയ്ക്കണം അത് കുറയ്ക്കുക നിങ്ങൾ ഏറ്റവും ഭയപ്പെടുന്ന കാര്യങ്ങൾ വീണ്ടും വീണ്ടും ചെയ്യുക അങ്ങനെ നിങ്ങൾക്ക് ആത്മവിശ്വാസം ലഭിക്കും നിങ്ങൾ ഈ ഭാഗത്തേക്ക് വരും അതിനാൽ ആത്മവിശ്വാസത്തെക്കുറിച്ചും മറ്റ് കാര്യങ്ങളെക്കുറിച്ചും ഞാൻ പിന്നീട് കൂടുതൽ സംസാരിക്കും ഇപ്പോൾ എത്തിച്ചേരേണ്ടത് പ്രധാനമാണെന്ന് നിങ്ങൾ ചിന്തിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു മികവിന് നിങ്ങൾ വളരെ ശക്തമായ ആന്തരിക കാമ്പ് വികസിപ്പിക്കേണ്ടതുണ്ട് ഇപ്പോൾ ശക്തമായ ഒരു ആന്തരിക കാമ്പ് വികസിപ്പിക്കുന്നതിലേക്ക് നിങ്ങൾ പ്രക്രിയ ദൃശ്യവൽക്കരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ഈ ആന്തരിക കോർ ശക്തിപ്പെടുത്തുന്നതിൽ നിർമ്മിച്ചിരിക്കുന്ന മികവ് ഇപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ആദ്യത്തെ 23 പ്രഭാഷണങ്ങളിൽ ഞാൻ എങ്ങനെയാണ് ആരംഭിച്ചത് ഇപ്പോൾ ഞാൻ നിങ്ങളോട് പറയാൻ ശ്രമിക്കുന്നത് ആദ്യം നിങ്ങളെ അറിയുക എന്നാണ് നിങ്ങളുടെ കഴിവുകൾ വികസിപ്പിക്കുക നിങ്ങൾ എവിടെയാണ് ശക്തിയെന്ന് അറിയുക കുറഞ്ഞത് ഒരു മേഖലയെങ്കിലും തിരിച്ചറിയുക നിങ്ങൾ വളരെ ശക്തരായിരിക്കുന്നിടത്ത് നിങ്ങൾ മികച്ചവനാണ് ഇപ്പോൾ ഒരു ദർശനം സൃഷ്ടിക്കുക അത് സ്റ്റീവ് ജോബ്സിന്റെ പ്രസംഗത്തിലേക്ക് മടങ്ങുകയാണെങ്കിലും അല്ലെങ്കിൽ അതിൽ നിന്ന് ആരംഭിക്കുകയാണെങ്കിലും അവസാനമായി ഞാൻ നിങ്ങളോട് പറയുകയായിരുന്നു നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്ന് അവസാനം ചിന്തിക്കുക നിങ്ങൾക്ക് എന്താണ് വേണ്ടത് നിങ്ങളുടെ ജീവിതത്തിലെ ചില പ്രധാന ആളുകൾ നിങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ നിന്റെ മരണം നിങ്ങളുടെ ജീവിതത്തിനായി നിങ്ങൾ സൃഷ്ടിച്ച കാഴ്ചപ്പാട് എന്താണ് തുടർന്ന് നിങ്ങളുടെ ദൌത്യം തിരിച്ചറിഞ്ഞ് അത് പിന്തുടരുക നിങ്ങളുടെ ദർശനം നേടാൻ കഴിയുന്ന ഘട്ടം ഘട്ടമായുള്ള പ്രക്രിയ ഇപ്പോൾ അതിനിടയിൽ നിങ്ങൾ ഒരു ദർശനം സൃഷ്ടിച്ചുകഴിഞ്ഞാൽ ഈ ജാപ്പനീസ് പദമായ കൈക്കാക്കു ഓർക്കുക ഇത് സമൂലമായ മാറ്റത്തെ സൂചിപ്പിക്കുന്നു നിങ്ങൾ ഒരു ദർശനം സൃഷ്ടിച്ചുകഴിഞ്ഞാൽ ഉദാഹരണത്തിന് ഞാൻ ആഗ്രഹിക്കുന്നു നാടിനെ മാറ്റുക അപ്പോൾ നിങ്ങൾ അത് എങ്ങനെ ചെയ്യാൻ ആഗ്രഹിക്കുന്നു അതിനാൽ ഞാൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിൽ ചേരും ശരി അപ്പോൾ നിങ്ങൾ ഒരു ദൌത്യ പ്രസ്താവന സൃഷ്ടിക്കുക അതിനാൽ ഞാൻ പരിശീലിക്കും ഞാൻ ഇതുപോലെ തയ്യാറാക്കും ഞാൻ ഈ സമയത്തിനുള്ളിൽ അഭിമുഖം നൽകും ഞാൻ ആദ്യമായി അത് തകർക്കാൻ ശ്രമിക്കും ഞാൻ രണ്ടാം തവണയും മൂന്നാം തവണയും ശ്രമിക്കില്ല നിങ്ങൾക്ക് പദ്ധതിയുണ്ട് ദർശനം പിന്നെ ദൌത്യം ഇപ്പോൾ കൈക്കാക്കു ഒരു സമൂലമായ മാറ്റത്തെ സൂചിപ്പിക്കുന്നു ഉദാഹരണത്തിന് നിങ്ങൾ പൂർണ്ണമായും ഒരു പുതിയ ജോലിയിലേക്കോ അല്ലെങ്കിൽ നിങ്ങളെ നിയമിക്കുന്ന പൂർണ്ണമായും ഒരു പുതിയ മേഖലയിലേക്കോ പോകുന്നതിനാൽ അത് ഒരു സമൂലമായ മാറ്റമാണ് ഇപ്പോൾ നിങ്ങൾ യഥാർത്ഥത്തിൽ നിങ്ങൾക്കായി ഒരു കാഴ്ചപ്പാട് സൃഷ്ടിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു സമൂലമായ മാറ്റം വേണം പൂർണ്ണമായും നിങ്ങളുടെ ജീവിതത്തിൽ ആവശ്യമായ വ്യത്യസ്ത തരത്തിലുള്ള പരിവർത്തനം ഇപ്പോൾ നിങ്ങൾ അത് പരീക്ഷിച്ചുകഴിഞ്ഞാൽ അത് പരീക്ഷിക്കുക തുടർന്ന് കൈസെനിലേക്ക് പോകുക അത് തുടർച്ചയാണ് മെച്ചപ്പെടുത്തൽ അക്ഷരാർത്ഥത്തിൽ അർത്ഥമാക്കുന്നത് നല്ല മാറ്റം പക്ഷേ അത് തുടർച്ചയുള്ളതാണ് മുമ്പത്തേത് പോലെ സമൂലമല്ല പക്ഷേ അത് തുടർച്ചയുള്ളതാണ് എല്ലാ ദിവസവും നിങ്ങൾ ചില മെച്ചപ്പെടുത്തലുകൾ വരുത്തുന്നു ചില മാറ്റങ്ങൾ സ്ഥിരത അതിൽ മെച്ചപ്പെടുത്തൽ നിങ്ങൾ ചെയ്യുന്ന മാറ്റത്തിന്റെ ഗുണനിലവാരത്തിൽ ഒരു സെന്റിമീറ്റർ മെച്ചപ്പെടുത്തൽ ഓരോ ദിവസവും ഉണ്ടാക്കുന്നതും പ്രധാനമാണ് ഓരോ ദിവസവും അൽപ്പം ഇപ്പോൾ നിങ്ങൾ ഇത് ചെയ്തുകഴിഞ്ഞാൽ നിങ്ങൾ മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്നു നിങ്ങൾ ഒരു ദർശനം സൃഷ്ടിച്ചു നിങ്ങൾ പ്രവർത്തിച്ചു ഒരു ദൌത്യം പൂർത്തിയാക്കിയാൽ ആ ദൌത്യം ഉപയോഗിച്ച് നിങ്ങൾ നിങ്ങളുടെ ദർശനം കൈവരിച്ചു ഇപ്പോൾ അടുത്തത് നിങ്ങൾ മുന്നോട്ട് പോകേണ്ടതുണ്ട് നിങ്ങൾ മുന്നോട്ട് പോകേണ്ടതുണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് ഈ തലത്തിൽ നിന്ന് മറ്റൊരു തലത്തിലേക്ക് എത്താൻ കഴിയുമെങ്കിൽ നിങ്ങൾക്ക് മറ്റ് പല തലങ്ങളിലേക്കും പോകാം ഇപ്പോൾ ആ തലങ്ങൾക്ക് ശേഷം എന്താണ് അത് അടുത്ത ചോദ്യമാണ് എന്നാൽ ആദ്യം നിങ്ങൾ എത്തിച്ചേരാൻ ശ്രമിക്കുക മറ്റ് തലങ്ങൾ നിങ്ങൾക്ക് എത്ര ദൂരം പോകാൻ കഴിയും എന്ന് സ്വയം പ്രേരിപ്പിക്കുന്നു ഇപ്പോൾ ഇത് ചെയ്യുന്നതിന് നിങ്ങൾക്ക് മെച്ചപ്പെട്ട കാഴ്ച ഉണ്ടായിരിക്കണം ആദ്യം നിങ്ങൾ വിചാരിച്ചു ഓ ഇതാണ് പർവ്വതം ഞാൻ കയറുകയാണെങ്കിൽ പിന്നെ അതിന്റെ അവസാനമാണ് അതിനാൽ നിങ്ങൾ കയറി നിങ്ങൾ കൊടുമുടിയിൽ എത്തി കൊടുമുടിയിൽ എത്തിയ ശേഷം അവിടെ ഒരു പീഠഭൂമി തരത്തിലുള്ള സ്ഥലമാണ് നിങ്ങൾ അവിടെ നടക്കുന്നു തുടർന്ന് പെട്ടെന്ന് നിങ്ങൾ ഇതിനേക്കാൾ ഉയർന്ന ഒരു കൊടുമുടി ഉണ്ടെന്ന് മനസ്സിലാക്കുക ഇവിടെ നിന്നുള്ള കാഴ്ച വളരെ മനോഹരമാണ് പക്ഷേ എനിക്ക് മുകളിലേക്ക് കയറാൻ കഴിയില്ലെന്ന് നിങ്ങൾ അത്ഭുതപ്പെടുന്നു കൂടുതൽ ഉയരത്തിൽ എത്തുക തുടർന്ന് അതിൽ നിന്ന് മികച്ച കാഴ്ച എടുക്കുക അതിനാൽ നിങ്ങൾ കൂടുതൽ ഉയരത്തിലേക്ക് കയറാൻ ശ്രമിക്കുന്നു ഇപ്പോൾ കയറ്റം കഠിനവും ദുഷ്കരവുമാണ് റോഡ് വളരെ കൂടുതലാണ് കൂടുതൽ അപകടകരവും അപകടകരവുമാണ് പക്ഷേ പ്രതിഫലവും കൂടുതലാണ് അതിനാൽ നിങ്ങൾ കാര്യങ്ങൾ കാണാൻ പോകുന്നു നിങ്ങൾ മുമ്പ് കണ്ടിട്ടില്ലാത്ത ഒന്ന് നിങ്ങൾ പൂർണ്ണമായും പുതിയ കാര്യങ്ങൾ അനുഭവിക്കാൻ പോകുന്നു പൂർണ്ണമായും അത് നിങ്ങളെ പരിവർത്തനം ചെയ്യുകയും അടുത്ത ഘട്ടത്തിലേക്ക് കൊണ്ടുപോകുകയും ചെയ്യും ഇപ്പോൾ ഈ ഘട്ടത്തിൽ ഞാൻ നിങ്ങളോട് പരാമർശിക്കാൻ ആഗ്രഹിക്കുന്നു പ്രചോദനത്തിന്റെ ഒരു വശമുണ്ട് ഡേവിഡ് മക്ലെലാൻഡിനെപ്പോലുള്ള എഴുത്തുകാർ എടുത്തുകാണിച്ചത് അതിനെ അവർ നീഡ് അച്ചീവ്മെന്റ് അല്ലെങ്കിൽ എൻഎച്ച് സ്വഭാവം എന്ന് വിളിച്ചു ഞാൻ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത് അടുത്ത പ്രഭാഷണത്തിലോ മറ്റോ ആയിരിക്കാം പക്ഷേ ഈ ഘട്ടത്തിൽ ഇത് ആവശ്യമുള്ള നേട്ടം എന്നത് എബ്രഹാം മാസ്ലോ സ്വയം യാഥാർത്ഥ്യമാക്കൽ എന്ന് വിളിച്ചതിന് അടുത്താണ് ഇപ്പോൾ നമുക്ക് സ്വയം യാഥാർത്ഥ്യമാക്കലിലേക്ക് പെട്ടെന്ന് നോക്കാം പിന്നെ ഈ പ്രഭാഷണത്തിൽ ഞാൻ അവതരിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു പ്രധാന ആശയമാണിത് ഞാൻ തുടരും അടുത്തതിലെ മറ്റ് അനുബന്ധ ആശയങ്ങളുമായി എന്നാൽ എന്താണ് സ്വയം യാഥാർത്ഥ്യമാക്കൽ എന്തുകൊണ്ടാണ് നിങ്ങൾ ഇത് അറിയേണ്ടത് ഇപ്പോൾ മാസ്ലോ പ്രചോദനങ്ങളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ആ ഡ്രൈവ് നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ ആവശ്യമായ കിക്ക് ആവശ്യമാണ് തൻ്റെ തിയറി ഓഫ് മോട്ടിവേഷൻ എന്ന പുസ്തകത്തിൽ അദ്ദേഹം ഇതിനെക്കുറിച്ച് സംസാരിച്ചു തുടർന്ന് അദ്ദേഹം പ്രചോദനത്തിന്റെ ഈ പ്രശസ്തമായ പിരമിഡ് 5 ഘട്ടത്തിൽ അവതരിപ്പിച്ചു ഈ സിദ്ധാന്തത്തിന് ചില പരിമിതികളുണ്ട് നമുക്ക് ഇപ്പോൾ അതിനെക്കുറിച്ച് വിഷമിക്കേണ്ടതില്ല കാരണം അത് അങ്ങനെയല്ല കോറുകളുമായി ബന്ധപ്പെട്ട നമ്മുടെ പ്രധാന ആശയത്തെ ബാധിക്കുന്നു ഇപ്പോൾ ഏറ്റവും താഴ്ന്ന തലത്തിൽ അദ്ദേഹം സംസാരിക്കുന്നത് ശാരീരിക ആവശ്യങ്ങളെക്കുറിച്ചാണ് അതിനെ അദ്ദേഹം വിളിക്കുന്നു അടിസ്ഥാന ആവശ്യങ്ങൾ തുടർന്ന് അടുത്തത് സുരക്ഷാ ആവശ്യങ്ങൾ ശാരീരിക ആവശ്യങ്ങൾ എന്നതുകൊണ്ട് അദ്ദേഹം എന്താണ് അർത്ഥമാക്കുന്നത് നമ്മുടെ വിശപ്പ് പോലെ ലൈംഗികത പോലെ ഉറക്കം പോലെ മദ്യപാനം പോലെ ശരി നിങ്ങൾക്ക് വേണമെങ്കിൽ നിറവേറ്റേണ്ട അടിസ്ഥാന മൃഗങ്ങളുടെ സഹജമായ ആവശ്യങ്ങൾ കൂടുതൽ നന്നായി ചിന്തിക്കുക മനുഷ്യൻ ഇതിനായി പ്രവർത്തിക്കുമെന്ന് അദ്ദേഹം പറയുന്നു അപ്പോൾ എന്തുകൊണ്ടാണ് നിങ്ങൾ എന്തെങ്കിലും ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത് ആദ്യം ആളുകൾ പറയും എനിക്ക് വയറു നിറയ്ക്കണം അതാണദ്ദേഹം പറയുന്നത് അതെ വയറ് നിറയ്ക്കുക മാത്രമല്ല മറ്റ് ചില ആവശ്യങ്ങൾ നിറവേറ്റാനും നിങ്ങൾ ആഗ്രഹിക്കുന്നു നിങ്ങളുടെ അടിസ്ഥാന ശാരീരിക പ്രവർത്തനവുമായി ബന്ധപ്പെട്ടതാണ് ഇപ്പോൾ അടുത്ത ഘട്ടം അദ്ദേഹം പറയുന്നു നിങ്ങൾ ചെയ്യുമെന്ന് നിറവേറ്റുന്നതിലൂടെ മാത്രം നിങ്ങൾ സന്തുഷ്ടരാകില്ല ഇപ്പോഴും ഉയർന്ന ആവശ്യങ്ങൾ ആഗ്രഹിക്കുന്നു അവ എന്തൊക്കെയാണ് അതിനാൽ സുരക്ഷാ ആവശ്യങ്ങൾക്ക് കീഴിൽ അവയെ തരംതിരിക്കാം ഇപ്പോൾ നിങ്ങൾ ഒരു മൃഗത്തെപ്പോലെയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നു നിങ്ങൾക്ക് ഭക്ഷണം ലഭിക്കുന്നു പിന്നെ നിങ്ങൾക്ക് ഭക്ഷണം ലഭിക്കുന്നു നിങ്ങൾ ഒരു ദിവസക്കൂലിക്കാരനെപ്പോലെ ജോലി ചെയ്യുന്നു നിങ്ങൾ ഉറങ്ങുകയാണ് റോഡിൽ പക്ഷേ മഴ പെയ്യുമ്പോഴോ ചൂടാകുമ്പോഴോ പെട്ടെന്നുണ്ടാകുമ്പോഴോ നിങ്ങൾ വരുമ്പോൾ ഇടിമിന്നലോ മറ്റെന്തെങ്കിലുമോ പാമ്പുകളോ വരുന്നുണ്ടോ ഉറങ്ങുകയാണ് അതിനാൽ നിങ്ങൾ സുരക്ഷിതരായിരിക്കാൻ ആഗ്രഹിക്കുന്നു അതിനാൽ നിങ്ങൾ ഒരു വീട് നിർമ്മിക്കാൻ ആഗ്രഹിക്കുന്നു അത്തരം സുരക്ഷിതമായ അന്തരീക്ഷത്തിൽ ജീവിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു അതിനാൽ നിങ്ങൾക്ക് മാത്രമല്ല കുടുംബാംഗങ്ങളെയും വേണം സുരക്ഷിതമായ അന്തരീക്ഷത്തിൽ സൂക്ഷിക്കുക നിങ്ങൾ സുരക്ഷാ ആവശ്യങ്ങൾക്കായി പോകുന്നു ഇപ്പോൾ നിങ്ങൾ അതിൽ എത്തിക്കഴിഞ്ഞാൽ ഒരിക്കൽ നിങ്ങൾ ഈ അടിസ്ഥാന നില കടന്നാൽ നിങ്ങൾ അത് ചെയ്യണമെന്ന് നിങ്ങൾക്ക് തോന്നും നിങ്ങളും നിങ്ങളുടെ കുടുംബത്തിൽ പെട്ടവരാണ് അപ്പോൾ നിങ്ങൾ സ്നേഹിക്കപ്പെടാൻ ആഗ്രഹിക്കുന്ന ഈ വൈകാരിക ആവശ്യം വരുന്നു അതിനാൽ അദ്ദേഹം അത് ഇടുന്നുണ്ടെങ്കിലും നിങ്ങൾ ശ്രദ്ധിക്കണം 5 ഘട്ടങ്ങളിൽ ആദ്യത്തെ അടിസ്ഥാന ഫിസിയോളജിക്കൽ ഘട്ടത്തിൽ നിർത്തുന്ന നിരവധി ആളുകൾ ഉണ്ടെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം ആവശ്യങ്ങൾ അവർ ഭക്ഷണം ലഭിക്കുന്നതിൽ സംതൃപ്തരാണ് തുടർന്ന് അവർ കൂടുതൽ ചിന്തിക്കുന്നില്ല അടുത്ത ഘട്ടമുണ്ട് ആളുകൾ സുരക്ഷാ ആവശ്യങ്ങളിൽ സംതൃപ്തരാണ് എന്നിട്ട് അവർ നിർത്തുന്നു ശരി ഇത് മതിയാകുമെന്ന് അവർ കരുതുന്നു മൂന്നാമത്തെ ആവശ്യം വൈകാരിക തലത്തിൽ അതിനാൽ നിങ്ങൾ എല്ലാ ആളുകളുമായും സഹകരിക്കാൻ ആഗ്രഹിക്കുന്നു ആളുകൾ നിങ്ങളുടെ സ്നേഹത്തെ സ്നേഹിക്കുകയും പ്രതികരിക്കുകയും വേണം ഇപ്പോൾ അത് ഒരു പങ്കാളിയിൽ നിന്നുള്ള സ്നേഹമായിരിക്കാം ശരി അത് ഒരു പങ്കാളിയിൽ നിന്നുള്ള സ്നേഹമായിരിക്കാം കുടുംബം അത് സുഹൃത്തുക്കളിൽ നിന്നുള്ള സ്നേഹമായിരിക്കാം അത് എന്തുതന്നെയായാലും നിങ്ങൾ ഗ്രൂപ്പിൽ ഉൾപ്പെടാൻ ആഗ്രഹിക്കുന്നു അതിനാൽ നിങ്ങൾ അവരുടെ ഭാഗമാണെന്ന് നിങ്ങൾക്ക് തോന്നുകയും തുടർന്ന് അംഗീകാരം നേടുകയും ചെയ്താൽ എന്തെങ്കിലും ചെയ്യുന്നതിലൂടെ ഈ ആളുകളിൽ നിന്നുള്ള അഭിനന്ദനം നിങ്ങളെ വീണ്ടും പ്രചോദിപ്പിക്കുന്നു ഇപ്പോൾ നിങ്ങൾ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഇവിടെ നിർത്തുന്ന നിരവധി ആളുകളുണ്ട് ആൺകുട്ടി ഒരു പെൺകുട്ടിയെ കണ്ടെത്തുകയും പിന്നീട് അവൻ ഒരു പെൺകുട്ടിയുമായി പ്രണയത്തിലാകുകയും ചെയ്യുന്നതുപോലെ പെൺകുട്ടി വളരെ ആകർഷകവും ബുദ്ധിമാനും ആണ് അപ്പോൾ അവൻ അവൾക്കായി എന്തും ചെയ്യും പർവ്വതങ്ങൾ നീക്കുക അവൻ ഇവയെല്ലാം ചെയ്യും അവന് ഒരു നല്ല ജോലി ലഭിക്കുന്നു അവളെ ആകർഷിക്കാൻ അവൻ കഠിനമായി പരിശ്രമിക്കുന്നു അദ്ദേഹത്തിന് ഒരു ബംഗ്ലാവ് ലഭിച്ചു അതിനുശേഷം അവർക്ക് കുട്ടികളുണ്ടായി തുടർന്ന് അവർക്ക് വിദ്യാഭ്യാസം നൽകി അതിനാൽ അവർ സന്തോഷത്തോടെ ജീവിക്കുന്നുവെന്നും ആവശ്യങ്ങൾ അവസാനിക്കുന്നുവെന്നും സിനിമയിൽ അവർ കാണിക്കുന്നു ഇവിടെ അതായത് സ്നേഹവും സ്വന്തമായ ആവശ്യങ്ങളും പക്ഷേ നിങ്ങൾ ഒരു പടി കൂടി മുന്നോട്ട് പോകുമെന്ന് മാസ്ലോ പറയുന്നു അതായത് നിങ്ങളുടെ ബഹുമാനത്തിന് വേണ്ടി ആ പ്രത്യേക പെൺകുട്ടി നിങ്ങളെ സ്നേഹിക്കുകയോ അല്ലെങ്കിൽ ആ പ്രത്യേക പുരുഷൻ കുളിക്കുകയോ ചെയ്യണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു നിങ്ങളെ സ്നേഹിക്കുന്നു പക്ഷേ നിങ്ങൾ ഉൾപ്പെടുന്ന സമൂഹത്തിൽ നിന്ന് നിങ്ങൾക്ക് ഒരുതരം ബഹുമാനം ആവശ്യമാണ് നിങ്ങൾക്ക് ചുറ്റുമുള്ള ലോകം ഇപ്പോൾ വീണ്ടും നിങ്ങൾ ഒരു പടി മുകളിലേക്ക് പോകും നിങ്ങൾ ഒരു നിർമ്മാണം നടത്തിയേക്കാം സമീപത്തുള്ള ചെറിയ ആശുപത്രി നിങ്ങൾ ധാരാളം പണം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കായി സംഭാവന ചെയ്യുന്നു അതിനാൽ നിങ്ങൾ ധാരാളം സഹായിക്കുന്നു ദാരിദ്ര്യത്തിലായ കുട്ടികൾ അവരുടെ വിദ്യാഭ്യാസത്തിൽ നിങ്ങൾ അവരെ സഹായിക്കുന്നു അതിനാൽ നിങ്ങൾ എന്തെങ്കിലും അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ചെയ്യുന്നു അതിനാൽ നിങ്ങളുടെ ബഹുമാനം വർദ്ധിക്കുന്നു ഇപ്പോൾ സിദ്ധാന്തത്തിന്റെ വിള്ളലുകൾ വരുന്നു ഇവിടെ വരെ നമുക്കെല്ലാവർക്കും തോന്നുന്നത് അതെ നമ്മൾ അവിടെയുണ്ടെന്ന് ഞങ്ങൾ അത് ചെയ്യുന്നു പക്ഷേ മാസ്ലോ ഈ അടിസ്ഥാന ആവശ്യങ്ങൾ വൈകാരിക ആവശ്യങ്ങൾ എന്നിവയിൽ നിന്ന് ഒരു പടി മുകളിലേക്ക് പോകുന്നു ബഹുമാനം ആവശ്യപ്പെടുന്നു തുടർന്ന് ഈ സ്വയം യാഥാർത്ഥ്യമാക്കൽ ആവശ്യമുണ്ടെന്ന് അദ്ദേഹം പറയുന്നു ഇപ്പോൾ ഇത് വരുന്നു വളർച്ചാ ആവശ്യങ്ങൾക്ക് കീഴിൽ ഇപ്പോൾ അത് വീണ്ടും വിരോധാഭാസമാണ് അദ്ദേഹം അടിസ്ഥാന ആവശ്യങ്ങൾ നിറവേറ്റുന്നില്ല ഒരു മനുഷ്യൻ എന്ന നിലയിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള യഥാർത്ഥ സൃഷ്ടിപരമായ വളർച്ചയുടെ ഭാഗമായി നിങ്ങളുടെ സുരക്ഷ ആവശ്യമാണ് അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ വളർച്ചയുടെ ആവശ്യം ഉയർന്ന തലത്തിലാണ് വരുന്നത് അതിനെ അദ്ദേഹം സ്വയം യാഥാർത്ഥ്യമാക്കൽ ആവശ്യം എന്ന് വിളിക്കുന്നു ഇപ്പോൾ ഞാൻ അത് ലളിതമായ രീതിയിൽ പറഞ്ഞാൽ അടിസ്ഥാന ആവശ്യം നിങ്ങൾ നിങ്ങളുടെ കാര്യത്തിൽ നിന്ന് ചിന്തിക്കുക ഭാവിയിൽ ഞാൻ ഇപ്പോൾ സുഖമായിരിക്കുന്നുവെന്ന് നിങ്ങൾ കരുതുന്നു എനിക്ക് ഭക്ഷണം ഉണ്ട് ശരി അതിനാൽ ഞാൻ സുഖമായിരിക്കുന്നു ഇപ്പോൾ സുരക്ഷിതത്വത്തിൽ നിങ്ങൾക്ക് തോന്നുന്നു എനിക്ക് വേണ്ടത്ര സുരക്ഷിതത്വം തോന്നുന്നു എൻ്റെ വീട് നല്ലതാണ് മിന്നൽ അതിനെ ബാധിക്കില്ല മഴ ഞാൻ സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു അതിനാൽ അതിനുശേഷം വൈകാരിക ആവശ്യത്തിൽ നിങ്ങൾക്ക് ഒരു അവർ എന്നെ സ്വീകരിച്ച ഒരു കൂട്ടത്തിൻ്റെ ഭാഗമാണ് ഞാൻ എന്ന തോന്നൽ ഞാൻ അവരുടെ ഭാഗമാണ് ആദരവ് ആവശ്യങ്ങളിൽ നിങ്ങൾ അംഗീകാരം നേടുന്നു നിങ്ങൾ പറയുന്നു ഞാൻ അറിയപ്പെടുന്നു ആളുകൾക്ക് എന്നെ അറിയാം അതിനാൽ ഞാൻ അംഗീകരിക്കപ്പെടുന്നു ഞാൻ അറിയപ്പെടുന്നു അതിനാൽ ആളുകൾ ഇഷ്ടപ്പെടുന്നു ഞാൻ ഞാൻ ബഹുമാനിക്കപ്പെടുന്നു എല്ലാവർക്കും അറിയാം പിന്നെ അവർ വളരെയധികം സ്നേഹവും ബഹുമാനവും നൽകുന്നു ഇപ്പോൾ അവസാന ഘട്ടത്തിൽ നിങ്ങൾ ചോദ്യം ചോദിക്കാൻ തുടങ്ങുന്നു ഞാൻ ഇവയെല്ലാം ചെയ്തു പക്ഷെ ഞാൻ ആരാണെന്ന് എനിക്കറിയില്ല എന്നിട്ട് നിങ്ങൾ തിരിച്ചറിയുന്നു ഞാൻ ഞാനാണ് അത് ഞാനാണ് എനിക്ക് ഇത് ചെയ്യാൻ കഴിയും ഇപ്പോൾ സ്വയം യാഥാർത്ഥ്യമാക്കലിനെക്കുറിച്ച് കൂടുതൽഃ മാസ്ലോയെ സംബന്ധിച്ചിടത്തോളം ഇത് വ്യക്തിപരമായ ആവശ്യത്തിന്റെ ഏറ്റവും ഉയർന്ന തലമാണ് വളർച്ചയും സ്വയം പൂർത്തീകരണവും ഒരാളുടെ കഴിവുകളുടെയും സാധ്യതകളുടെയും സാക്ഷാത്കാരവും പൂർത്തീകരണവും ഇതിനെ നമ്മൾ സ്വയം യാഥാർത്ഥ്യമാക്കൽ എന്ന് വിളിക്കുന്നു എന്താണ് യാഥാർത്ഥ്യമെന്ന് മറ്റൊരു വിധത്തിൽ നിങ്ങൾക്ക് പറയാം ഒന്ന് സാധ്യതയുള്ളതും ആധികാരികവുമാണ് ഒരാളുടെ സർഗ്ഗാത്മകതയുടെ ആവിഷ്കാരം യാഥാർത്ഥ്യത്തെക്കുറിച്ചുള്ള കാര്യക്ഷമമായ ധാരണകൾ അതായത് അവർ ചെയ്യുന്നില്ല യാഥാർത്ഥ്യത്തെ വളച്ചൊടിക്കുന്നു അവർക്ക് കാണാൻ കഴിയും യഥാർത്ഥമായത് എന്താണെന്നും ഏതെങ്കിലും തരത്തിലുള്ള മിഥ്യാധാരണകളാൽ മൂടപ്പെടാതിരിക്കുകയും ചെയ്യുക തങ്ങളെയും മറ്റുള്ളവരെയും അംഗീകരിക്കാൻ അവർക്ക് സൌകര്യമുണ്ട് അവർ സ്വാശ്രയവും സ്വതന്ത്രരുമായ ആളുകളാണ് സ്വയം യാഥാർത്ഥ്യബോധമുള്ളവരാണ് അവർ മറ്റുള്ളവരെ ആശ്രയിക്കേണ്ടതില്ല തുടർന്ന് അവർ സ്വയം വിശ്വസിക്കുന്നു വളരെ സ്വതന്ത്രമായി അവരുടെ സ്വന്തം അനുഭവങ്ങൾ വിധിക്കായി ഉപയോഗിക്കാൻ അവർക്ക് കഴിയും അവർ ആരുടെയെങ്കിലും അഭിപ്രായം തേടേണ്ടതില്ല അതിനാൽ അവരുടെ കാര്യത്തിൽ എങ്ങനെ വിധി നിർണ്ണയിക്കാമെന്ന് അവർക്കറിയാം സ്വന്തം അനുഭവങ്ങൾ അവ വളരെ സ്വാഭാവികവും സ്വാഭാവികവുമാണ് അവർക്ക് കൃത്രിമ സ്വഭാവമില്ല അവർ കാപട്യക്കാരല്ല അവർ അവർ വളരെ താഴ്മയുള്ളവരാണ് അവർ അഹങ്കാരികളല്ല പിന്നെ അവർ വളരെ സ്വാഭാവികമാണ് പിന്നെ അവർക്ക് നന്ദിയുടെ ഈ തുടർച്ചയായ പുതുമയുണ്ട് അവർ സൂര്യപ്രകാശം കാണുന്നത് പോലെ ആദ്യമായി സൂര്യപ്രകാശം അവർ ആദ്യമായി റോസാപ്പൂവിന്റെ മണം അതിനാൽ ഓരോ ദിവസവും ഒരു പുതിയ ദിവസമാണ് ഓരോ ദിവസവും പുതുതായി ജീവിക്കുന്നു അനുഭവപരിചയമുള്ളവർ അതിനാൽ അവർ ഓരോ ദിവസവും ഓരോ നിമിഷവും പുതുതായി ജീവിക്കുന്നു പിന്നെ അവർ നിലനിർത്തുന്ന ബന്ധങ്ങൾ ചിലപ്പോൾ അവ വളരെ കുറച്ച് ആളുകൾ മാത്രമേ ഉള്ളൂവെങ്കിലും അവർ നിലനിർത്താൻ ശ്രമിക്കുന്ന വളരെ ആഴമേറിയതും സ്നേഹപൂർണവും വാത്സല്യപൂർണ്ണവുമായ ഒരു ബന്ധമാണിത് രസകരമെന്നു പറയട്ടെ അവർ ആൾക്കൂട്ടത്തിലായിരിക്കാം എന്നാൽ അതേ സമയം അവർ വളരെ സുഖകരമാണ് ഏകാന്തതയോടെ അതിനാൽ അവർ സ്വയം യാഥാർത്ഥ്യമാകുമ്പോൾ പ്രപഞ്ചവുമായി ബന്ധിപ്പിക്കാൻ കഴിയും ഈ സ്വയം യാഥാർത്ഥ്യബോധമുള്ള ആളുകളുടെ മറ്റൊരു രസകരമായ കാര്യം അവർക്ക് ചിരിക്കാൻ കഴിയും എന്നതാണ് കൂടാതെ അവരുടെ താഴ്മയ്ക്ക് പുറമെ പീക്ക് എന്ന് വിളിക്കപ്പെടുന്ന ഇതും അവർക്കുണ്ട് അനുഭവങ്ങൾ മാസ്ലോ തിയോറി ഓഫ് മോട്ടിവേഷൻ എന്ന പുസ്തകത്തിൽ ഏകദേശം 50 പേജുകൾ ചെലവഴിക്കുന്നു പീക്ക് അനുഭവങ്ങളെക്കുറിച്ച് സംസാരിക്കുക പക്ഷേ ഇപ്പോൾ അത് അത്തരത്തിലുള്ള ആവേശമാണെന്ന് അറിയുന്നത് മതിയാകും നിങ്ങളുടെ ആത്മാവ് പൂർത്തീകരണത്തിന്റെ ഏറ്റവും ഉയർന്ന രൂപത്തിലാണെന്ന് നിങ്ങൾക്ക് തോന്നുന്ന നിമിഷം നിങ്ങൾ ചെയ്തു നിങ്ങളുടെ നിലവാരം മികച്ചതാണ് അത് മികവിനേക്കാൾ കൂടുതലാണ് അത് മികവിന് മുകളിലാണ് അപ്പോൾ നിങ്ങൾ ആ നിമിഷത്തിലെത്തുന്നു തുടർന്ന് നിങ്ങൾ അത് വിലമതിക്കുന്നു പിന്നെ അവസാനം അവർ ആത്മീയമായി പ്രബുദ്ധരായ ആളുകളാണ് വീണ്ടും ഇതിനെക്കുറിച്ച് വരാനിരിക്കുന്ന പ്രഭാഷണത്തിൽ ഞാൻ കൂടുതൽ ചെലവഴിക്കും ഞാൻ അവസാനിപ്പിക്കുന്നതിനുമുമ്പ് മാസ്ലോ ചിന്തിക്കാൻ ആഗ്രഹിച്ച ഒന്നോ രണ്ടോ ചിന്തകൾ ഈ സ്വയം യാഥാർത്ഥ്യമാക്കൽ അവതരിപ്പിക്കുന്നു ഈ രീതിയിലാണ് അദ്ദേഹം ആത്മസാക്ഷാത്കാരത്തെ നിർവചിക്കുന്നത് അദ്ദേഹം പറയുന്നു ഒരു സംഗീതജ്ഞൻ സംഗീതം നിർമ്മിക്കണം ഒരു കലാകാരൻ പെയിന്റ് ചെയ്യണം ആത്യന്തികമായി സ്വയം സമാധാനത്തിലാകണമെങ്കിൽ ഒരു കവി എഴുതണം ഒരു മനുഷ്യന് എന്തായിത്തീരാൻ കഴിയുമോ അവൻ അങ്ങനെയായിരിക്കണം ഒരു മനുഷ്യന് എന്തായിത്തീരാൻ കഴിയുമോ അത് ആയിരിക്കണം ഇതിനെയാണ് അദ്ദേഹം ആത്മസാക്ഷാത്കാരം എന്ന് വിളിക്കുന്നത് എന്നാൽ അദ്ദേഹം പിന്നീട് നമ്മോട് പറയുന്ന രസകരമായ വസ്തുത അതിനേക്കാൾ കുറവാണെന്ന് അദ്ദേഹം പറയുന്നു മുതിർന്നവരിൽ 1 ശതമാനം പേർ പൂർണ്ണമായ ആത്മസാക്ഷാത്കാരം നേടുന്നു ഇതിനർത്ഥം പലരും ശ്രമിക്കുന്നു പലരും ശ്രമിക്കുന്നു ആ നിലവാരത്തിലെത്താൻ ആഗ്രഹിക്കുന്നു പക്ഷേ ഇത് യഥാർത്ഥത്തിൽ 1 ശതമാനത്തിൽ താഴെ മാത്രമാണ് ഇത് അതിനാൽ സ്വയം യാഥാർത്ഥ്യമാക്കൽ മുതിർന്നവരിൽ ഒരു ശതമാനത്തിൽ താഴെ അപൂർവ്വമായി മാത്രമേ സംഭവിക്കുന്നുള്ളൂ എന്ന് അദ്ദേഹം പറയുന്നു ഇത് പറഞ്ഞുകഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോൾ ചോദിക്കാംഃ അപ്പോൾ ഞാൻ സ്വയം യാഥാർത്ഥ്യമാക്കാൻ ശ്രമിക്കണോ തീർച്ചയായും നിങ്ങൾ ശ്രമിക്കണം എന്നാണ് ഞാൻ അർത്ഥമാക്കുന്നത് നിങ്ങൾ അതിൽ ഉൾപ്പെടണം അത് പൂർണ്ണമായും യാഥാർത്ഥ്യമാക്കുന്ന മുതിർന്നവരിൽ ശതമാനം അത് പൂർണ്ണമായും മനസ്സിലാക്കുന്നു ഒരു ശതമാനം മാത്രമാണെങ്കിൽപ്പോലും ആ നിലവാരത്തിലെത്തുക എന്നിട്ട് നമ്മളിൽ ഭൂരിഭാഗവും മിക്ക സമയത്തും പ്രവർത്തിക്കുന്നു എന്ന വസ്തുതയും അദ്ദേഹം പറയുന്നു സ്വയം യാഥാർത്ഥ്യമാക്കലിനേക്കാൾ താഴ്ന്ന തലത്തിൽ നമ്മൾ നമ്മളിൽ ഭൂരിഭാഗവും ആ നിലവാരത്തിലെത്തുന്നില്ല ശാരീരിക ആവശ്യങ്ങളിൽ കുടുങ്ങി അവരിൽ ചിലർ വൈകാരിക ആവശ്യങ്ങളിൽ അവരിൽ ചിലർ വൈകാരിക ആവശ്യങ്ങളിൽ അവർ അധികാരം സംയോജിപ്പിച്ചിടത്ത് ബഹുമാനം ആവശ്യമാണ് എന്നാൽ പലരും അത് നേടാൻ പോലും ആഗ്രഹിക്കുന്നില്ല സ്വയം യാഥാർത്ഥ്യമാക്കൽ ആവശ്യമാണ് ഇപ്പോൾ അത് സാധാരണത്വത്തിന്റെ സൈക്കോ പാത്തോളജിയാണെന്ന് അദ്ദേഹം പറയുന്നു അത് സാധാരണമായിരിക്കുക എന്ന രോഗമാണ് അത് ന്യായമായിരിക്കുക എന്ന രോഗമാണ് ഒരു സാധാരണ ജീവിതം നയിക്കുന്ന ഒരു സാധാരണ മനുഷ്യൻ ഇപ്പോൾ എന്തുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ പറയുന്നത് അത് നടക്കില്ല നിങ്ങളെ സന്തോഷിപ്പിക്കാൻ എന്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഇതിനെക്കുറിച്ച് ചിന്തിക്കുക അദ്ദേഹം പറയുന്നു നിങ്ങൾ ആകാൻ കഴിവുള്ളതിനേക്കാൾ കുറവായിരിക്കാൻ നിങ്ങൾ പദ്ധതിയിടുകയാണെങ്കിൽ നിങ്ങൾ ആണെങ്കിൽ നിങ്ങൾക്ക് കഴിവുള്ളതിനേക്കാൾ കുറവായിരിക്കാൻ പദ്ധതിയിടുക നിങ്ങൾ ഒരുപക്ഷേ അസന്തുഷ്ടരാകും നിങ്ങളുടെ ജീവിതത്തിന്റെ നാളുകൾ അതിനാൽ നിങ്ങളിൽ ചിലർ സ്വയം യാഥാർത്ഥ്യമാക്കലിനെക്കുറിച്ച് ചിന്തിക്കുക പോലും ചെയ്യാതിരിക്കാം എത്താതിരിക്കാം എന്നതാണ് അപകടസാധ്യത ആ ലെവൽ നന്നായിരിക്കുന്നു പക്ഷേ ആ തലത്തിലേക്ക് ആഗ്രഹിക്കുന്നത് പോലും യഥാർത്ഥത്തിൽ നിങ്ങളെ സന്തോഷിപ്പിക്കാൻ പോകുന്നു നേരെമറിച്ച് നിങ്ങൾക്ക് കഴിവുണ്ടെന്ന് നിങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ പക്ഷേ ആ സാധ്യതകൾ തിരിച്ചറിയാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല സ്വയം യാഥാർത്ഥ്യമാക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല സർഗ്ഗാത്മകതയുടെയും സ്വാഭാവികതയുടെയും ആ തലത്തിലെത്തുകയും നിങ്ങൾ സ്വയം പൂർണ്ണമായും ആധികാരികനാണ് നിങ്ങൾ അത് ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾ പോകുകയാണെന്ന് അദ്ദേഹം പറയുന്നു നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ ദിവസങ്ങളിലും അസന്തുഷ്ടനായിരിക്കുക അതിനെക്കുറിച്ച് ചിന്തിക്കുക നിങ്ങൾക്ക് അസന്തുഷ്ടനാകാൻ ആഗ്രഹമുണ്ടോ നിങ്ങളുടെ ജീവിതകാലം മുഴുവൻ അല്ലെങ്കിൽ സന്തോഷകരവും സമാധാനപരവുമായ ജീവിതം നയിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു ഇപ്പോൾ തീർച്ചയായും നിങ്ങൾ പറയാൻ പോകുന്നത് നിങ്ങൾ ചെയ്യുന്ന മറ്റൊരു കാര്യമാണ് ജീവിതകാലം മുഴുവൻ സന്തോഷത്തോടെയും സമാധാനത്തോടെയും ജീവിക്കാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾ എവിടെയാണെന്ന് ചിന്തിക്കുക നിങ്ങളുടെ സാധ്യതകൾ പുനർമൂല്യനിർണ്ണയിക്കുകയും സ്വയം യാഥാർത്ഥ്യമാക്കലിന്റെ ആ തലത്തിലെത്തുകയും ചെയ്യുക സ്വയം യാഥാർത്ഥ്യമാക്കലിന്റെ 2 വശങ്ങളെക്കുറിച്ച് ഞാൻ സംസാരിക്കും അത് ആവശ്യമുള്ള നേട്ടത്തിന് അടുത്താണ് അടുത്ത പ്രഭാഷണത്തിൽ ആത്മീയ സമ്പത്തും പ്രഭാഷണത്തിലേക്ക് ഒരു തിരിഞ്ഞുനോട്ടം നടത്തുക എന്നിട്ട് പ്രത്യേകിച്ച് സ്വയം യാഥാർത്ഥ്യമാക്കലിനെക്കുറിച്ച് ചിന്തിക്കുക പ്രത്യേകിച്ച് ഇന്ന് നിങ്ങൾ ഉറങ്ങാൻ പോകുന്നതിനുമുമ്പ് സ്വയം യാഥാർത്ഥ്യമാക്കലിനെക്കുറിച്ച് ചിന്തിക്കുക നിങ്ങൾക്ക് എങ്ങനെ ആ തലത്തിലെത്താനാകും

ഒരിക്കൽക്കൂടി നന്ദി